ഇനി സ്വിംഗ് ലിമിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി ഞാൻ ഇവിടെ ക്വിസൻറ് ക്വാണ്ടിറ്റിസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയൻറ് വാല്യൂസ് എഴുതാം അതിനാൽ ഇത് 3 വോൾട്ട്സ് ആണ് അത് 3 വോൾട്ട്സ് ആണ് ഓപ്പറേറ്റിംഗ് പോയൻറ് വോൾട്ടേജ് ഇവിടെ പൂജ്യമാണ് vi പൂജ്യം ആകുമ്പോൾ ഇത് പൂജ്യം വോൾട്ടിൽ ആണ് ഔട്ട്പുട്ട് കൂടി പൂജ്യം വോൾട്ടിൽ ആണ് ഓപ്പറേറ്റിംഗ് പോയൻറിൽ കപ്പാസിറ്റർ 3 വോൾട്ട്സ് വരെ ചാർജ് ചെയ്യപ്പെടും ഇനി ഒരു സിഗ്നൽ vi പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും ഇത് 3 V vi എന്നാകുന്നു ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്ന പോയിൻറ് നോക്കുകയാണെങ്കിൽ അതായത് vi 0 17 V ഇത് 3 V 0 17 V 3 17 V എന്നാകുന്നു ഇനി ഔട്ട്പുട്ട് vi എന്നത് 0 17 വോൾട്ട്സ് ആകുമ്പോഴാണ് ഇവിടെ ഔട്ട്പുട്ട് 0 17 4 8 V ആണ് ഇത് ഗെയിൻ 0 83 വോൾട്ട്സ് ആണ് ഇവിടെ ഡ്രയിനിൽ വോൾട്ടേജ് 3 V 0 83 V ആണ് ഇവിടെയും അവിടെയും ഇൻക്രിമെൻറൽ വോൾട്ടേജ് തുല്യമാണ് കാരണം C2 സിഗ്നൽ ഫ്രീക്വൻസിക്ക് ഷോട്ട് ആയി പ്രവർത്തിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ C2 3 വോൾട്ട്സ് നിലനിർത്തുന്നു അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് 3 V 0 83 V 2 17 വോൾട്ട്സ് ആണ് ഇനി എന്താണ് സംഭവിച്ചതെന്ന് കാണുക ഗേറ്റ് വോൾട്ടേജ് വർദ്ധിച്ചു 3 17 വോൾട്ട്സ് ആയിരിക്കുന്നു ഡ്രയിൻ വോൾട്ടേജ് താഴ്ന്ന് 2 17 ആയിരിക്കുന്നു ഗേറ്റിനെക്കാൾ ഒരു VT താഴെ വ്യക്തമായി ഇത് ട്രയോഡ് റീജിയണിൻറെ അഗ്രത്തിൽ ആണുള്ളത് ഇൻപുട്ട് വോൾട്ടേജ് ഇതിൽ കൂടുതൽ വർദ്ധിച്ചാൽ ഇത് താഴേക്ക് പോയി ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കും അതിനാൽ ഇതാണ് ലിമിറ്റ് ഇൻപുട്ട് 0 17 ആകുമ്പോൾ ഇത് ട്രയോഡ് റീജിയണിൽ എത്തിച്ചേരും ഇത് ഔട്ട്പുട്ടിൻറെ ടേംസിൽ വേണമെങ്കിൽ ഔട്ട്പുട്ട് 0 83 വോൾട്ട്സ് ആകുമ്പോൾ ഇത് ട്രയോഡ് റീജിയണിൽ പ്രവേശിച്ചിരിക്കും ഇനി കട്ടോഫ് ലിമിറ്റ് നോക്കാം ക്വിസൻറ് വോൾട്ടേജ് വാല്യൂസ് ഞാൻ വീണ്ടും എഴുതാം ഇവിടെ 3 വോൾട്ട്സ് ആണ് C2 വിനു കുറുകെ 3 വോൾട്ട്സ് ആണ് ഓപ്പറേറ്റിംഗ് പോയൻറിൽ അല്ലെങ്കിൽ ക്വിസൻറ് കണ്ടീഷനിൽ ഔട്ട്പുട്ടിൽ ഇത് പൂജ്യമാണ് ഇൻപുട്ടിലും ഇത് പൂജ്യമാണ് കട്ട് ഓഫ് ലിമിറ്റ് സംഭവിക്കുന്നത് 1 V ആണെന്ന് നാം കണക്കാക്കി കഴിഞ്ഞു ഇവിടത്തെ ക്വിസൻറ് കറൻറ് തീർച്ചയായും 200µA ആണ് ഇനി ഇൻപുട്ട് 1 V ആയിരിക്കുമ്പോൾ ഇൻക്രിമെൻറൽ കറൻറ് vGS കൂടി 1 V ആയിരിക്കും അതിനാൽ ഇൻക്രിമെൻറൽ കറൻറ് gm vGS അതായത് 200 µS 1 V ആയിരിക്കും അതിനാൽ ടോട്ടൽ ഡ്രയിൻ കറൻറ് 200 µA 200 µS 1 V ആണ് ഇത് തീർച്ചയായും പൂജ്യമായിരിക്കും ട്രാൻസിസ്റ്റർ കട്ടോഫിൽ ആയിരിക്കുമ്പോൾ അതിൻറെ ഡ്രയിൻ കറൻറ് പൂജ്യമായിരിക്കും ഇത് ഓപ്പൺ സർക്യൂട്ട് പോലെ തന്നെയാണ് ഈ റെസിസ്റ്ററിനെ തീർച്ചയായും ഓപ്പൺ സർക്യൂട്ട് ആയി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് കാരണം ഇത് വളരെ വലുതായതിനാൽ കൃത്യമായി ഓപ്പൺ സർക്യൂട്ട് അല്ല പക്ഷേ നാം ഇതിൻറെ വാല്യൂ വളരെ കൂടുതൽ ആയിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാൽ ഇതുവഴി കറൻറ് കടന്നു പോകുകയില്ല അതിനാൽ കട്ടോഫിൽ കണ്ടീഷൻ എന്തെന്നാൽ ഇവിടെ കറണ്ട് ഇല്ല അവിടെയും കറണ്ട് ഇല്ല ചുരുക്കത്തിൽ നമുക്ക് ഈ സർക്യൂട്ട് മാത്രമാണുള്ളത് ഇവിടെ ഇത് ഓപ്പൺ സർക്യൂട്ടഡ് ആണ് ഇവിടെ C2 RL എന്നിവയുണ്ട് ഇത് 40 KΩ 60 KΩ 15 വോൾട്ട്സ് എന്നിവയാണ് C2 3 V ഹോൾഡ് ചെയ്യുന്നു ഇതിൻറെ ഓപ്പറേറ്റിംഗ് പോയൻറ് വാല്യൂ പൂജ്യമാണ് കാരണം C2 വിന് കുറുകെയുള്ള ഇൻക്രിമെൻറൽ വോൾട്ടേജ് പൂജ്യമാണ് C2 സിഗ്നലിനു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുമ്പോൾ ഇൻക്രിമെൻറൽ വോൾട്ടേജ് പൂജ്യമാണ് സിഗ്നൽ ഒരു ഒമേഗാ ഫ്രീക്വൻസിയിൽ ആണുള്ളത് എന്നുമാണ് അർത്ഥം അതിനാൽ C2 വിന് കുറുകെ കോൺസ്റ്റൻറ് 3 V ഉണ്ട് യഥാർത്ഥത്തിൽ കട്ട് ഓഫ് ലിമിറ്റ് ഈ രീതിയിലും കണക്കാക്കാവുന്നതാണ് ഈ കേസിൽ ഇതിനു കുറുകെ 3 വോൾട്ട്സ് ആണ് ഉള്ളത് ടോട്ടലിനു കുറുകെ 15 വോൾട്ട്സ് പ്രയോഗിച്ചിട്ടുണ്ട് ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറൻറിനെ IL എന്നു വിളിക്കാം IL എന്നത് 15 വോൾട്ട്സ് 3 വോൾട്ട്സ് എന്നതിനെ ടോട്ടൽ റസിസ്റ്റൻസ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് ടോട്ടൽ റസിസ്റ്റൻസ് 100 KΩ ആണ് IL 120 µA ആയിരിക്കും IL 100 KΩ 120 µA IL 120 µA ആയതിനാൽ ഇതിനു കുറുകെ 7 2 V ആണെന്നും ലോഡിനു കുറുകെ 4 8 V ആണെന്നും എളുപ്പത്തിൽ കണക്കാക്കാം ഇനി ഔട്ട്പുട്ടിൻറെ ടേംസിൽ ലിമിറ്റിലേക്ക് മടങ്ങി പോകാം നാം പറഞ്ഞത് ലിമിറ്റ് 4 8 വോൾട്ട്സിനേക്കാൾ കുറവായിരിക്കണം എന്നാണ് നമുക്ക് കൃത്യമായി ഒരേ വാല്യൂ തന്നെ ലഭിക്കണം കാരണം നാം ഒരേ കണ്ടീഷനാണ് കണക്കാക്കുന്നത് കപ്പാസിറ്റർ ഒരു കോൺസ്റ്റൻറ് വോൾട്ടേജ് ആണ് നിലനിർത്തുന്നതെന്ന് നാം ഊഹിക്കുന്നു ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് കാരണം ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആകുന്നു അതിനാൽ തീർച്ചയായും ഒരേ ലിമിറ്റ് ലഭിക്കുന്നു അതിനാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആകുമ്പോൾ ഔട്ട്പുട്ട് 4 8 വോൾട്ട്സ് ആകുന്നു ഈ വാല്യൂ എന്താണ് എന്നുള്ളതാണ് അതിലും താൽപര്യമുണർത്തുന്ന കാര്യം ഈ വാല്യൂ 15 7 2 7 8 വോൾട്ട്സ് ആണ് ഇതേകാര്യം ആദ്യം കണക്കു കൂട്ടാനുള്ള മറ്റൊരു വഴി 3 വോൾട്ട്സ് ഉള്ള ക്വിസൻറ് ഡ്രയിൻ വോൾട്ടേജും gm RD ║ RL 1 V ആയ ഇൻക്രിമെൻറൽ ഡ്രയിൻ വോൾട്ടേജും കൂട്ടുക എന്നതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 3 വോൾട്ട്സ് 4 8 വോൾട്ട്സ് എന്നത് 7 8 ആകുന്നു എന്നാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആകുമ്പോൾ ഈ പോയിൻറ് 7 8 വോൾട്ട്സ് ആകുന്നു ഇത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആയി ഇവിടെ കറൻറ് ഇല്ലാത്തതിനാൽ 60 KΩ റെസിസ്റ്ററിലും കറൻറ് ഇല്ല എന്ന് യാദൃശ്ചികമായെങ്കിലും വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇതിനർത്ഥം ഇത് VDD എത്തിയിട്ടുണ്ടാകും എന്നാണ് പക്ഷേ ഇത് ശരിയല്ല സംഭവിക്കുന്നത് എന്തെന്നാൽ ഇതിൽ വോൾട്ടേജ് വർദ്ധിക്കുന്നു ഇതിൽ കറൻറ് കുറയുന്നു ഇതിൽ കറൻറ് വർദ്ധിക്കുന്നു അതിനാൽ ഇത് 3 വോൾട്ട്സ് ആകുമ്പോൾ ഇവിടെ 200 µA ആണ് അവിടെയും 200 µA ആണ് അങ്ങോട്ട് കറൻറ് പോകുന്നില്ല അതാണ് ക്വിസൻറ് കണ്ടീഷൻ ഈ വോൾട്ടേജ് 3 വോൾട്ടിന് മുകളിൽ പോകുമ്പോൾ തീർച്ചയായും റസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് കുറയുന്നു ഇവിടെയുള്ള കറൻറ് കുറയുന്നു ഈ വോൾട്ടേജും വർദ്ധിക്കുന്നു അതിനാൽ ഇവിടെയുള്ള കറൻറ് വർദ്ധിക്കുന്നു അതിനാൽ ഈ കറൻറിൻറെ ഒരു ഭാഗം അതുവഴി പോകുന്നു ഡ്രയിൻ കറൻറ് വീണ്ടും കുറയുന്നു എല്ലാ കറന്റും ഒഴുകുന്ന ആ ഒരു പോയിൻറ് ആണ് കട്ട് ഓഫ് ഈ ലോഡ് റെസിസ്റ്റൻസ് ഓപ്പൺ സർക്യൂട്ട് ആകാതെ ആ കറൻറ് പൂജ്യമാകില്ല ഇത് അനന്തമായി വലുതാണ് ഈ 40 കിലോ ഓം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നെങ്കിൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് ആകുമ്പോൾ ഈ വോൾട്ടേജ് 12 വോൾട്ടിൽ എത്തുന്നു പക്ഷേ ലോഡ് റെസിസ്റ്റൻസ് ഉള്ളതുകാരണം ഇത് VDD എത്തുന്നില്ല ഇത് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പരസ്പരം ചേരുന്നതാണ് എന്നും ഇത് നമ്മെ കാണിക്കുന്നു നാം ഇൻക്രിമെൻറ് ഓപ്പറേറ്റിംഗ് പോയൻറിനോട് കൂട്ടുന്നു അല്ലെങ്കിൽ കട്ട് ഓഫിൽ കറണ്ട് ഇല്ല എന്നും കറൻറ് ഇതുവഴി ഒഴുകുന്നുവെന്നും നമുക്ക് കരുതാം അതിനാൽ ഇതാണ് ഒരു വ്യത്യസ്ത ടോപ്പോളജി ആയ ഡ്രയിൻ ഫീഡ്ബാക്കോടു കൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ സ്വിംഗ് ലിമിറ്റ്സ് കാൽക്കുലേഷൻറെ ചുരുക്കം സ്വിംഗ് ലിമിറ്റ്സ് കൃത്യമായ ബയാസിങ് സർക്യൂട്ടിനെയും VDS0 VGS0 തുടങ്ങിയവയുടെ ക്വിസൻറ് വാല്യൂസിനെയും ആശ്രയിക്കുന്നു ഈ ഉദാഹരണത്തോടുകൂടി ഏതു സർക്യൂട്ടിൻറെയും സ്വിംഗ് ലിമിറ്റ്സ് കണക്കാക്കാൻ നമുക്ക് സാധിക്കും ഇതിൻറെ പ്രവർത്തനം എപ്പോഴും ഒരുപോലെ ആയിരിക്കും നിങ്ങൾ ടോട്ടൽ VDS അല്ലെങ്കിൽ VGS അല്ലെങ്കിൽ VD അല്ലെങ്കിൽ VG നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ എളുപ്പമുള്ളത് ഏതായാലും കണ്ടുപിടിക്കുക കൂടെ ID കൂടി കണ്ടുപിടിക്കുക എങ്ങനെയാണ് ടോട്ടൽ ക്വാണ്ടിറ്റിസ് ലഭിക്കുക ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് ഓപ്പറേറ്റിംഗ് പോയൻറ് ക്വാണ്ടിറ്റിസുമായി കൂട്ടുക ലീനിയർ ആയ സ്മോൾ സിഗ്നൽ അനാലിസിസിൽ നിന്നാണ് ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് ലഭിക്കുന്നത് ആ കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ്സ് പ്രയോഗിക്കുക VDS എന്നത് VGS VT എന്നതിനേക്കാളും കൂടുതലായിരിക്കണം ID പൂജ്യത്തെക്കാൾ കൂടുതലായിരിക്കണം ഇങ്ങനെ സിഗ്നലിൻറെ രണ്ട് ലിമിറ്റ്സ് ലഭിക്കും ഇതാണ് ചുരുക്കം ടോട്ടൽ ക്വാണ്ടിറ്റിസ് കണക്കാക്കുക ടോട്ടൽ ക്വാണ്ടിറ്റിസ് എന്നത് ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് ഓപ്പറേറ്റിംഗ് പോയൻറ് ക്വാണ്ടിറ്റിസ് എന്നിവയുടെ തുക ആണ് ഈ ഭാഗം സ്മാൾ സിഗ്നൽ ലീനിയർ ഇക്വിവാലൻറ് സർക്യൂട്ടിൽ നിന്നാണ് വരുന്നത് അതിനുശേഷം ട്രയോഡ് കട്ട് ഓഫ് ലിമിറ്റ്സ് പ്രയോഗിക്കുക അതിനുശേഷം ഇത് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവയുടെ ടേംസിൽ കണക്കാക്കുക കൂടാതെ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുക വഴി ഒരിക്കൽ ലിമിറ്റ് കണക്കാക്കിയാൽ സർക്യൂട്ടിലെ മറ്റ് വോൾട്ടേജ് കറൻറ് എന്നിവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കണം അങ്ങനെയുള്ള ലിമിറ്റ്സിനെ ഉൾപ്പെടുത്തണം കാരണം അത് സാധാരണ ഇൻക്രിമെൻറൽ അനാലിസിസിൽ നിന്നാണ് വരുന്നത് പിന്നീട് ഒന്നിലധികം ട്രാൻസിസ്റ്റർസ് ഉള്ള സർക്യൂട്ട്സ് നിങ്ങൾ കാണും ഇനി എന്താണ് ചെയ്യേണ്ടത് മുൻപ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഒരു സമയത്ത് ഒരു ട്രാൻസിസ്റ്ററിൻറെ ട്രയോഡ് അല്ലെങ്കിൽ കട്ട് ഓഫ് ലിമിറ്റ് കണ്ടുപിടിക്കുക ഇനി ചില ട്രാൻസിസ്റ്റർസ് M1 കാരണം vi ഈ ലിമിറ്റ്സിന് ഇടയിലായിരിക്കും അപ്പർ ലിമിറ്റ് 12 V ഉം ലോവർ ലിമിറ്റ് 1 5 V ഉം ആണെന്ന് കരുതുക M2 കാരണം അപ്പർ ലിമിറ്റ് 1 V ഉം ലോവർ ലിമിറ്റ് 0 17 V ഉം ആയിരിക്കും ഓരോ ട്രാൻസിസ്റ്റർസിനും ചെയ്യുക 100 ട്രാൻസിസ്റ്റർസ് ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഇത് ചെയ്യുക ഏറ്റവും മോശമായ കേസെടുക്കുക അതായത് അപ്പർ ലിമിറ്റിലെ ഏറ്റവും കുറഞ്ഞത് ലോവർ ലിമിറ്റിലെ ഏറ്റവും കൂടിയത് എന്നിവയായിരിക്കും തീർച്ചയായും vi 0 5 ൽ ലിമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ M1 ട്രയോഡ് റീജിയണിൽ പോകുന്നു അല്ലെങ്കിൽ M1 ആവശ്യമുള്ള റീജിയന് പുറത്തുപോകും ഇത് 0 7 വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ M2 ആവശ്യമില്ലാത്ത റീജിയണിൽ പോകും അതിനാൽ ട്രാൻസിസ്റ്റർസ് ചുമത്തുന്ന ലിമിറ്റ്സിൽ നിന്നും വർസ്റ്റ് കേസ് ലിമിറ്റ്സ് എടുക്കുക അങ്ങനെയാണ് മൾട്ടിപ്പിൾ ട്രാൻസിസ്റ്റർസിന് ഇത് കണക്കാക്കുന്നത് ഇത്തരം സർക്യൂട്ട്സ് നാം അധികം ചർച്ച ചെയ്തിട്ടില്ല അഥവാ മൾട്ടിപ്പിൾ ട്രാൻസിസ്റ്റർസ് ഉള്ള സർക്യൂട്ട്സ് നിങ്ങൾ കാണാൻ ഇടയായാൽ ഇതേ രീതി പിന്തുടരാൻ നിങ്ങൾക്ക് സാധിക്കണം